അതിനാൽ ഇത് നമ്മളെ ഏകദേശം ശരിയായ ഒരു സംഗ്രഹത്തിലേക്ക് എത്തിക്കുന്നു ഇന്റഗ്രൽ സമവാക്യങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫോർവേഡ് പ്രശ്നങ്ങൾക്കായി അവ ഉപയോഗിക്കാമെന്ന് നമ്മൾ കരുതി പക്ഷേ ഇത് നമ്മൾക്ക് ലീനിയർ ഓൾജിബ്രയുടെ വളരെ നല്ല ഭാഷ നൽകിയിരിക്കുന്നു അതിൽ എനിക്ക് ഈ ഇൻവേഴ്സ് പ്രോബ്ലം ശരിയായി എഴുതാം കൂടാതെ ഇതിൽ ഇൻവേഴ്സ് പ്രോബ്ലത്തിന് ഒന്നിൽ കൂടുതൽ വ്യാഖ്യാനം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി അതിനാൽ അത് മതിയായ വിവരങ്ങൾ ആയിരുന്നില്ല ഫീൽഡുകൾ ബാൻഡ് പരിമിതമാണ് എന്നത് മാത്രമല്ല അതുമായി മുന്നോട്ട് പോവുക കൂടാതെ രണ്ടാമത്തെ പ്രശ്നം നോൺ ലീനിയാരിറ്റി ആയിരുന്നു അതിനാൽ ഇത് എനിക്ക് ഒരു നോൺ കോൺവെക്സ് ഒപ്റ്റിമൈസേഷൻ നൽകുന്നു അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ ഉദ്യേശിക്കുന്നത് അതിനാൽ നിങ്ങൾക്കറിയാവുന്ന ഡാറ്റ അനലിറ്റിക്സും ഒപ്റ്റിമൈസേഷൻ മെഷീൻ ലേണിംഗും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും ആവശ്യമാണ് ഇതിനു ഒരു നല്ല ഉത്തരം ലഭിക്കാൻ മാത്രമല്ല ഈ പ്രശ്നത്തിന് CEM മാത്രം മതിയാകില്ലെന്നും ഇത് കാണിക്കുന്നു തീർച്ചയായും നമ്മൾ അത് ലീനിയർ ഓൾജിബ്രയുടെ ഭാഷയിൽ എഴുതേണ്ടതുണ്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതുണ്ട് കൂടാതെ ആ ഇൽ പോസെഡ്നെസ്സ് ഒഴിവാക്കുന്നതിന് വേവ്ലെറ്റ് ഡൊമെയ്നിലേക്ക് നമ്മൾ നോക്കുന്നു ഉദാഹരണത്തിന് അതാണ് നിങ്ങളുടെ സിഗ്നൽ പ്രോസസ്സിംഗും ഹെവി ഡ്യൂട്ടി ഒപ്റ്റിമൈസേഷനും ഇവിടെ എല്ലാ സാങ്കേതിക വിദ്യകളും ഒരുമിച്ച് വരുന്നു എന്ന് നിങ്ങൾക്കറിയാം കൂടാതെ നിങ്ങൾ സിഗ്നൽ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി അടിയിൽ മറഞ്ഞിരിക്കാനും സാധ്യത ഉണ്ട് എന്നതും ശരിയാണ് അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും ഇവയാണ് CEM മറ്റ് പലതും പോലെയുള്ള ഉപകരണങ്ങളിൽ ഒന്നാണ് ഒരു യഥാർത്ഥ എഞ്ചിനീയറിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിന് ഇവ ഒരുമിച്ച് ഉപയോഗിക്കേണ്ടിവരും ഒരു വിഷയം മാത്രം അറിഞ്ഞ് അത് മാത്രം ഉപയോഗിക്കുന്ന നാളുകൾ ഇക്കാലത്തു എല്ലാം പരസ്പരം വളരെയധികം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു ശരിയല്ലേ അതിനാൽ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ഇവിടെയും ml ചേർക്കാം അത് ഒപ്റ്റിമൈസേഷന്റെ ഭാഗമാണ് വിദ്യാർത്ഥി സാറിന് കഴിയുമോ വിദ്യാർത്ഥി ഇന്റഗ്രൽ സമവാക്യങ്ങൾ അല്ലാതെ മറ്റേതെങ്കിലും രീതി ഉപയോഗിക്കുക ഇന്റഗ്രൽ സമവാക്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള FDTD നിങ്ങൾക്കും ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാനാകുമെന്ന അത്ര നല്ല ഫോർമുലേഷൻ ഇവിടെ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ നിങ്ങൾ ഇവിടെ ഈ രീതിയിൽ വീണ്ടും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ x ന് വേണ്ടിയുള്ള ചില ഊഹങ്ങളിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത് ഇതു ഉപയോഗിച്ച് ഞാൻ u കണക്കാക്കും അതിനാൽ u കിട്ടുക എന്നത് ഫോർവേഡ് പ്രോബ്ലം കണ്ടെത്തലാണ് ഫോർവേഡ് പ്രോബ്ലം കണ്ടെത്തുക എന്നത് ഏത് രീതി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് ഞാൻ എഴുതിയ ഇൻവേഴ്സ് പ്രോബ്ലത്തിന് ഫോർമുലേഷൻ എനിക്ക് കിട്ടിയത് ഇന്റഗ്രൽ ഈക്വേഷൻ ഫോർമുലേഷനിൽ നിന്നാണ് അതിനാൽ കമ്പ്യൂട്ടേഷണൽ സമയം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റഗ്രൽ ഇക്വേഷനിൽ ഫോർവേഡ് പ്രോബ്ലം ഉപയോഗിക്കരുത് കാരണം അത് കൂധത്താൽ സമയം എടുക്കുo അപ്പോൾ അതിനെ നമുക്ക് FEM എന്ന് പറയാം അതിനാൽ ഇതുപോലുള്ള ഇൻവേഴ്സ് പ്രോബ്ളത്തിൽ നിങ്ങൾക്ക് FEM ൽ ഫോർവേഡ് പ്രോബ്ലം ഉണ്ടാക്കാം വിദ്യാർത്ഥി നമ്മൾ ഇൻവേഴ്സ് പ്രോബ്ലം നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇൻവേഴ്സ് പ്രോബ്ലം നോക്കുകയാണ് വിദ്യാർത്ഥി ഇമേജിംഗ് തത്സമയ മൈക്രോവേവ് ഇമേജിംഗ് ഞാൻ ചെയ്യുന്നില്ല വളരെ ലളിതമായി എനിക്കറിയാം വ്യത്യാസം വളരെ വളരെ ചെറുതാണ് അതുകൊണ്ട് ഈ അൽഗോരിതം പ്രവർത്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അത് തത്സമയം ചെയ്യാൻ കഴിയും എന്നാൽ ഇതുപോലൊരു പ്രശ്നം നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഒരു ആവർത്തന പ്രക്രിയയാണ് അത് ഒരു പക്ഷെ തത്സമയം പ്രവർത്തിച്ചേക്കാം അല്ലെങ്കിൽ പ്രവർത്തിച്ചേക്കില്ല വിദ്യാർത്ഥി സമയം കാണുക 0339 അതിനാൽ വോൾ ഇമേജിംഗിലൂടെയും ചലിക്കുന്ന ലക്ഷ്യങ്ങളിലൂടെയും അതെല്ലാം വോൾ ഡിറ്റെക്ഷനിലൂടെ നിങ്ങൾ ചില ഏകദേശ സാദൃശ്യം അനുവദിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വോൾ ഉണ്ട് അതിന് പിന്നിൽ ചില വസ്തുക്കളുണ്ട് ഒരു തീവ്രവാദി അല്ലെങ്കിൽ നിങ്ങൾ അത് ദൃശ്യവത്കരിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആവാം ഇപ്പോൾ പെർമിറ്റിവിറ്റി 3 അല്ലെങ്കിൽ 3 5 ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല ഒരു വസ്തുവുണ്ടോ ഇല്ലയോ എന്നത് അതിനാൽ വസ്തുവിന് ഒരു അവ്യക്തമായ രൂപം ലഭിക്കുന്നിടത്തോളം കാലം ഞാൻ പ്രശ്നത്തിൽ നിന്ന് എന്റെ പ്രതീക്ഷകൾ കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് അതിനാൽ ഞാൻ എന്റെ പ്രശ്നം മാറ്റുകയാണെങ്കിൽ പരിഹാരത്തിന്റെ കൃത്യതയെക്കുറിച്ചുള്ള എന്റെ ആവശ്യകതകളിൽ എനിക്ക് ഇളവ് നൽകാൻ കഴിയും അതിനാൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളത് നിങ്ങൾ പറയണം എനിക്ക് സ്തനാർബുദം കണ്ടെത്തുന്നതിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ആരോഗ്യമുള്ള കോശങ്ങളും ക്യാൻസർ കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് പറയാൻ കഴിയുമായിരുന്നു അത് അവ്യക്തമായ കാര്യമല്ല ശരി കാരണം നിങ്ങൾ തെറ്റായ വിവരങ്ങൾ ഡോക്ടർക്ക് നൽകിയാൽ അദ്ദേഹം തെറ്റായ ഭാഗം വെട്ടിക്കളയും ശരിയല്ലേ അതിനാൽ പെർമിറ്റിവിറ്റി ശരിയായി കിട്ടുക എന്നത് ഒരു അളവിന്റെ പ്രശ്നമാണ് വോൾ ഇമേജിംഗിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഗുണപരമായ പ്രശ്നങ്ങളാണ് എനിക്ക് എന്തെങ്കിലും തെളിവ് തരൂ അത് കൂടുതലോ കുറവോ ആണ് അത് പ്രശ്നമാണ് അവിടെ നിങ്ങൾക്ക് തത്സമയ പരിഹാരം നേടാനും മറ്റും കഴിയും